TALE മൊഡ്യൂൾ 2 ന്റെ യൂണിറ്റ് 5 ലേക്ക് സ്വാഗതം മുമ്പത്തെ യൂണിറ്റിൽ നമ്മൾ അനലൈസ് ഘട്ടത്തിന്റെ ചില ഉപപ്രക്രിയകൾ നോക്കുകയായിരുന്നു ADDIE ന്റെ ചട്ടക്കൂടിൽ നമ്മൾ ഒരു കോഴ്സിന്റെ രൂപകൽപ്പന നോക്കുകയായിരുന്നു കൂടാതെ ADDIE ന്റെ ഫ്രെയിം വർക്കിൽ ആദ്യ ഘട്ടമായ അനലൈസ് ഘട്ടത്തിൽ നമ്മൾ പിന്തുടർന്ന ഉപപ്രക്രിയകൾ നിങ്ങളുടെ ആവശ്യകതകൾക്ക് അനുസൃതമായി നിർമ്മിക്കാൻ കഴിയും നാല് വർഷത്തെ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായി ഒരു സെമസ്റ്ററിൽ വാഗ്ദാനം ചെയ്യുന്ന ഒരു കോഴ്സ് രൂപകൽപ്പന ചെയ്യുക എന്നതാണ് നമ്മുടെ ആവശ്യം അനലൈസ് ഘട്ടത്തിന്റെ ഉപപ്രക്രിയകളിൽ നമ്മൾ ഇനിപ്പറയുന്ന മൂന്ന് പ്രവർത്തനങ്ങൾ പരിശോധിച്ചു കോഴ്സ് സന്ദർഭവും അവലോകനവും അതിന്റെ പങ്ക് എന്താണ് അത് എങ്ങനെ എഴുതണം മൊഡ്യൂൾ 1 ൽ നമ്മൾ വിശദമായി അഭിസംബോധന ചെയ്ത കോഴ്സ് ഔട്കമുകൾ എഴുതുന്നു കൂടാതെ ഒരു കൺസെപ്റ്റ് മാപ്പ് വരയ്ക്കുകയും ചെയ്യുന്നു അനലൈസ് ഘട്ടത്തിലെ മറ്റ് ഉപ പ്രക്രിയകളുടെ സ്വഭാവത്തെയും പങ്കിനെയും യൂണിറ്റ് 4 ന്റെ തുടർച്ചയായി ഈ യൂണിറ്റ് അഭിസംബോധന ചെയ്യുന്നു ഈ ഉപ പ്രക്രിയകൾ ഇവയാണ് ഓരോ സിഒകൾക്കും സാമ്പിൾ അസസ്മെന്റ് ഇനങ്ങൾ സൃഷ്ടിക്കുന്നു ഞങ്ങൾ ഇപ്പോൾ അത് വിശദീകരിക്കും ടാക്സോണമി പട്ടികയിൽ കോഴ്സ് ഔട്കമുകൾ കണ്ടെത്തുക കോഴ്സ് പിഒ പിഎസ്ഒ സ്ട്രെങ്ത് മാട്രിക്സ് തയ്യാറാക്കൽ സ്ട്രെങ്ത് മാട്രിക്സ് യഥാർത്ഥത്തിൽ കോഴ്സിന്റെ ഒരു നിരയായിരിക്കും ഒപ്പം ഓരോ സിഒയും കഴിവുകളിലേക്ക് വിശദീകരിക്കുന്നു ഒരു കോഴ്സ് രൂപകൽപ്പന ചെയ്യുന്നതിലും നടത്തുന്നതിലുമുള്ള ആദ്യത്തെ പ്രധാന ഘടകമാണ് നല്ല കോഴ്സ് ഔട്കമുകൾ എഴുതുക എന്നത് എന്നാൽ ഇത് ഒരു സീരിയൽ രീതിയിൽ മാത്രം ചെയ്യാൻ കഴിയില്ല നിങ്ങൾ ഇത് ആവർത്തനപരമായി ചെയ്യേണ്ടതുണ്ട് സിഒകൾ എഴുതുന്നത് സഹകരണത്തിലൂടെയാണ് നല്ലത് സിഒകളുടെ നേട്ടം കണക്കാക്കുന്നതിലും നമുക്ക് കരുതലുണ്ട് സിഒകളുമായി പൊരുത്തപ്പെടേണ്ട വിലയിരുത്തലിലൂടെയാണ് സിഒകളുടെ നേട്ടം അളക്കുന്നത് ഓരോ ഔട്ട്കമുകളുമായും പൊരുത്തപ്പെടുക എന്നതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഞങ്ങൾ നിർവചിച്ചു ഒരു ടാക്സോണമി പട്ടികയുടെ ചട്ടക്കൂടിലോ സന്ദർഭത്തിലോ നോക്കുകയാണെങ്കിൽ വിലയിരുത്തലും CO യും ടാക്സോണമി പട്ടികയുടെ ഒരേ സെല്ലിലായിരിക്കണം CO സ്റ്റേറ്റ്മന്റിന്റെ ആക്ഷൻ ക്രിയയെ പ്രതിനിധീകരിക്കുന്ന അതേ വൈജ്ഞാനിക തലത്തിലാണ് വിലയിരുത്തൽ ഇനങ്ങൾ എന്നതാണ് അലൈൻമെന്റ് അർത്ഥമാക്കുന്നത് CO കളുമായി വിന്യസിച്ച് സാമ്പിൾ അസസ്മെന്റ് ഇനങ്ങൾ എഴുതുന്നത് CO സ്റ്റേറ്റ്മെന്റുകളുടെ മെച്ചപ്പെടുത്തലിന് കാരണമാകും നിങ്ങൾ ആദ്യമായി CO കൾ എഴുതുമ്പോൾ അവ ശരിയാണെന്ന് തോന്നാം സിഒ നേടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ നമ്മൾ ചില വിലയിരുത്തലുകൾ നടത്തേണ്ടതുണ്ട് പ്രത്യേക സിഒ പഠിക്കുമ്പോൾ വിദ്യാർത്ഥിക്ക് ചില പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയണം എന്നാണ് ഇതിനർത്ഥം ആ പ്രത്യേക സിഒയുടെ ഇൻസ്ട്രക്ഷന്റെ അവസാനത്തിൽ ഒരു കൂട്ടം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് കഴിയണം അവർ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം അവയാണ് ഞാൻ സൃഷ്ടിക്കേണ്ട സാമ്പിൾ അസസ്മെന്റ് ഇനങ്ങൾ അല്ലെങ്കിൽ സാമ്പിൾ പ്രശ്നങ്ങൾ ഞാൻ ആ സാമ്പിൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകഴിഞ്ഞാൽ എനിക്ക് സിഒയിലേക്ക് തിരിഞ്ഞുനോക്കാനും പരസ്പരം അവയുടെ വിന്യാസം പരിശോധിക്കാനും കഴിയും ഈ പ്രക്രിയ ഞാൻ ആവർത്തിക്കാം ഉദാഹരണത്തിന് എന്റെ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും സിഒയെ കൃത്യമായി പ്രതിനിധീകരിക്കുന്നില്ലെങ്കിൽ ഞാൻ സിഒയെ വീണ്ടും മാറ്റി ചെയ്യേണ്ടതായി വന്നേക്കാം അല്ലെങ്കിൽ എന്റെ മനസ്സിലുള്ള സിഒ അനുസരിച്ച് ചില അധിക സാമ്പിൾ പ്രശ്നങ്ങൾ ഞാൻ രൂപകൽപ്പന ചെയ്യേണ്ടതുണ്ട് "ഡാറ്റാ സ്ട്രക്ചറുകൾ" എന്ന കോഴ്സിൽ ഒരു സിഒയെ "സ്റ്റാക്ക് ക്യൂകൾ ലിങ്ക്ഡ് ലിസ്റ്റുകൾ stack queues and linked lists എന്നിവയുൾപ്പെടെയുള്ള ലീനിയർ ഡാറ്റാ സ്ട്രക്ചറുകൾ ഉപയോഗിച്ച് പ്രോഗ്രാമുകൾ എഴുതുക" എന്ന് എഴുതിയിരിക്കുന്നു ഇത് സ്വീകാര്യമായ ഒരു സിഒ ആണ് "പ്രോഗ്രാമുകൾ എഴുതുക" എന്നത് ഒരു പ്രായോഗിക പ്രവർത്തിയിൽ ഉൾപ്പെടുന്നു സിഒയുമായി പൂർണ്ണമായും വിന്യസിക്കുന്നവ യഥാർത്ഥത്തിൽ വിദ്യാർത്ഥിയോട് ചില പ്രവർത്തനങ്ങൾ നടത്താനോ പ്രോഗ്രാമുകൾ എഴുതാനോ അല്ലെങ്കിൽ ഈ മൂന്ന് ഡാറ്റാ ഘടനകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചെയ്യാനോ ആവശ്യപ്പെടണം നൽകിയിരിക്കുന്ന സാമ്പിൾ ടെസ്റ്റ് ഇനങ്ങൾ ഇവയാണ് • അവിടെ നൽകിയിരിക്കുന്ന ലിങ്കുചെയ്ത ലിസ്റ്റിൽ നിന്ന് '100' ഉൾപ്പെടുത്തലും '87' ഇല്ലാതാക്കലും നടത്തുക • ലിങ്ക് ലിസ്റ്റിലേക്ക് ഡാറ്റ ആ ഇനങ്ങൾ തിരുകുക ലിങ്ക് ലിസ്റ്റ് റിവേഴ്സല് നടത്തുക • നൽകിയിരിക്കുന്ന പട്ടികയിലെ നാലാമത്തെ സ്ഥാനത്ത് നൽകിയിരിക്കുന്ന വൺ ഡൈമൻഷണൽ അറേയിൽ '100' ചേർക്കാൻ ഒരു പ്രോഗ്രാം എഴുതുക • തന്നിരിക്കുന്ന അറേയിൽ നിന്ന് എല്ലാ തനിപ്പകർപ്പുകളും ഒഴിവാക്കാൻ ഒരു പ്രോഗ്രാം എഴുതുക ഞങ്ങൾ തിരഞ്ഞെടുത്ത എല്ലാ സാമ്പിൾ പ്രശ്നങ്ങളും ലിങ്കുചെയ്ത ലിസ്റ്റുകളോ അറേകളോ ആണെന്ന് തോന്നുന്നു മറ്റ് ഡാറ്റാ സ്ട്രക്ചറുകളുടെ സ്റ്റാക്കുകളും ക്യൂകളും സാമ്പിൾ പ്രശ്നങ്ങളിൽ പരിഗണിക്കുന്നില്ല ഞാൻ വിദ്യാർത്ഥികൾക്ക് സാമ്പിൾ പ്രശ്നങ്ങൾ നൽകുമ്പോൾ മുഴുവൻ സിഒയും ലിങ്കുചെയ്ത ലിസ്റ്റുകളിലേക്കും അറേകളിലേക്കും മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നുവെന്ന് അവർക്ക് തോന്നും അതിനാൽ ഒന്നുകിൽ എനിക്ക് സിഒയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് ഒന്നുകിൽ ഞാൻ സിഒയിൽ നിന്ന് സ്റ്റാക്കുകളും ക്യൂകളും നീക്കംചെയ്യുന്നു അല്ലെങ്കിൽ എന്റെ സാമ്പിൾ പ്രശ്നങ്ങളിൽ സ്റ്റാക്കുകളും ക്യൂകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉൾപ്പെടുത്തണം ഈ സാഹചര്യത്തിൽ സിഒ സ്റ്റേറ്റ്മെന്റ് മാറ്റേണ്ട ആവശ്യമില്ലെന്ന് ഞങ്ങൾ കണ്ടെത്തി പക്ഷേ ഇപ്പോൾ സിഒ സ്റ്റേറ്റ്മെന്റിൽ പരാമർശിച്ച നാല് ഡാറ്റാ സ്ട്രക്ചറുകളെയും പ്രതിനിധീകരിക്കുന്ന ഒരു കൂട്ടം പ്രശ്നങ്ങൾ ഞാൻ എഴുതുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ഇത് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് • തന്നിരിക്കുന്ന പദപ്രയോഗം ഒരു സ്റ്റാക്ക് ഉപയോഗിച്ച് വിലയിരുത്തുന്നതിന് ഒരു പ്രോഗ്രാം എഴുതുക • ഓക്സിലിയറി വേരിയബിളുകളും n വലിപ്പത്തിലുള്ള അറേയും ഉപയോഗിച്ച് n ന്റെ വലിപ്പത്തിലുള്ള സർക്കുലർ ക്യൂ നടപ്പിലാക്കുക രണ്ട് പ്രശ്നങ്ങൾ സ്റ്റാക്ക് ക്യൂ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാക്കി മാറ്റി ഇത് സാമ്പിൾ പ്രശ്നങ്ങൾ മാത്രമാണെന്ന് ഓർമ്മിക്കുക എന്തുകൊണ്ടാണ് അവ ആവശ്യമായി വരുന്നത് സാമ്പിൾ പ്രശ്നങ്ങൾക്കൊപ്പം സാമ്പിൾ ഉത്തരവും ഉൾപ്പെടുത്തണം സാമ്പിൾ ഉത്തരം നോക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായി വരുന്ന ജോലികൾ ആവശ്യമായ മുൻകൂർ അറിവ് എന്നിവ കണ്ടെത്താൻ കഴിയും ഇൻസ്ട്രക്ഷൻ ആസൂത്രണം ചെയ്യുന്നതിനും ഇത് അധ്യാപകനെ സഹായിക്കും സാമ്പിൾ ടെസ്റ്റ് ഇനങ്ങളുടെ ഒരു നല്ല സെറ്റ് എഴുതുന്നത് അനലൈസ് ഘട്ടത്തിലെ ഉപപ്രക്രിയകളിൽ ഒന്നും യഥാർത്ഥ ഇൻസ്ട്രക്ഷന് ഒരു മുൻവ്യവസ്ഥയുമാണ് ടാക്സോണമി പട്ടികയിൽ സിഒകളെ അടയാളപ്പെടുത്തുന്നു അനലോഗ് സർക്യൂട്ടുകളും സിസ്റ്റങ്ങളും എന്ന ഒരു കോഴ്സിന്റെ സിഒകളാണ് ഇവ ഇത് 3 0 1 കോഴ്സിനായി എഴുതിയിരിക്കുന്നു ഇത് അധ്യാപകന് എങ്ങനെ വേണമെന്നതിനെ ആശ്രയിച്ച് 4 0 1 ആക്കാം കോഴ്സ് ഫലങ്ങളിലൊന്ന് CO3 നിഷ്ക്രിയവും സജീവവുമായ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ലളിതമായ സിഗ്നൽ പ്രോസസ്സിംഗ് ആപ്ലിക്കേഷനുകളുടെ സ്വഭാവം മനസ്സിലാക്കുക എന്നതാണ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് കോഗ്നിറ്റീവ് ലെവൽ ആയ അണ്ടർസ്റ്റാൻഡ് യു ഉപയോഗിച്ച് ടാഗുചെയ്യാൻ കഴിയും മാത്രമല്ല ഇത് കോൺസെപ്ച്യുവലും പ്രോസിഡറലുമായ അറിവ് ഉപയോഗിക്കുന്നു ഇത് യു സി പി എന്ന് ടാഗുചെയ്തിട്ടുണ്ട് നിങ്ങൾ CO4 നോക്കുകയാണെങ്കിൽ താപനില വോൾട്ടേജ് സമയം എന്നിവയോട് സെൻസിറ്റീവ് ആയ പാരാമീറ്ററുകളുള്ള ഉപകരണങ്ങളെ കൃത്യമായി ഉപയോഗിച്ച് സിഗ്നൽ പ്രോസസ്സിംഗും പരിവർത്തന പ്രവർത്തനങ്ങളും വിപുലമായി നടത്താൻ നെഗറ്റീവ് പോസിറ്റീവ് ഫീഡ്ബാക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസിലാക്കുക നമ്മൾ ഇപ്പോൾ "അണ്ടർസ്റ്റാൻഡ് " എന്ന് ടാഗുചെയ്യുന്നു "കൺസെപ്റ്സ് " ഉണ്ട് ഫണ്ടമെന്റൽ ഡാറ്റ പ്രിൻസിപ്പൽസ് FDP ഞങ്ങൾ ഇടുന്നു ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിന്റെ പ്രകടനത്തെ സ്വാധീനിക്കാൻ നെഗറ്റീവ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്നത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന ഡിസൈൻ തത്വമാണ് അതിനാൽ ആണ് FDP എന്ന ടാഗ് അതുപോലെ ഇതേ കോഴ്സിലെ മറ്റ് സിഒകളും ആകെ 9 എണ്ണം എല്ലാം ഇതേപോലെ ടാഗുചെയ്തിരിക്കുന്നു CO6 എന്നത് ഫിൽട്ടറുകളിലെ പ്രധാന വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നൽകിയിരിക്കുന്ന സവിശേഷതകൾ അനുസരിച്ച് അടിസ്ഥാന ബാൻഡ് മേഖലയിലെ നിഷ്ക്രിയവും സജീവവുമായ ബിക്വാഡ് അനലോഗ് ഫിൽട്ടറുകൾ രൂപകൽപ്പന ചെയ്യുക ഡിസൈൻ എന്ന പദം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇത് പ്രയോഗത്തിൽ പെടുന്നതാണെന്ന് ഞങ്ങൾ നേരത്തെ വിശദീകരിച്ചു അതായത് നിഷ്ക്രിയ ഫിൽട്ടറിന്റെ അല്ലെങ്കിൽ സജീവ ഫിൽട്ടറിന്റെ യഥാർത്ഥ രൂപകൽപ്പന ഇതിനകം ആശയവിനിമയം നടത്തിയ നന്നായി നിർവചിക്കപ്പെട്ട ഒരു പ്രക്രിയയെ പിന്തുടരുന്നു വിജ്ഞാന വിഭാഗങ്ങളിൽ കോൺസെപ്ച്യുവൽ സി പ്രോസിഡറൽ പി ക്രൈറ്റീരിയ സ്പെസിഫിക്കേഷൻസ് സി എസ് conceptual procedural and C S ഉൾപ്പെടുന്നു എല്ലാ സിഒകൾക്കും വേണ്ടിയുള്ള കോഗ്നിറ്റീവ് ലെവലും വിജ്ഞാന വിഭാഗങ്ങളും ഉപയോഗിച്ച് നമ്മൾ ഇപ്പോൾ ടാഗുചെയ്യുന്നു സിഒകൾ ഒരു ടാക്സോണമി പട്ടികയ്ക്കുള്ളിൽ സ്ഥാപിക്കാൻ കഴിയും മൊഡ്യൂൾ 1 ലും ഞങ്ങൾ ഇത് മുമ്പ് കാണിച്ചു എല്ലാ വൈജ്ഞാനിക തലങ്ങളും ഓർമ്മിക്കുക മനസിലാക്കുക പ്രയോഗിക്കുക തുടങ്ങിയ വരികളായി കാണിക്കുന്നു ഇതിൽ ഞങ്ങൾ എല്ലാ വിജ്ഞാന വിഭാഗങ്ങളും കാണിക്കുന്നു കൂടാതെ ടാഗിംഗിനെ ആശ്രയിച്ച് നമ്മൾ ഒന്നിലധികം സിഒകൾ ഒന്നിലധികം നിരകളിൽ കാണാൻ സാധിക്കും ഉദാഹരണത്തിന് CO2 എടുക്കുക ഇതിന് കോൺസെപ്ച്യുവലും പ്രോസിഡറൽ അറിവ് ഘടകങ്ങളുണ്ട് ഇത് രണ്ട് വ്യത്യസ്ത സെല്ലുകളിൽ ദൃശ്യമാകും ഉദാഹരണത്തിന് നിങ്ങൾ CO1 നോക്കുകയാണെങ്കിൽ അത് മൂന്ന് സെല്ലുകളിൽ ദൃശ്യമാകും വസ്തുതാപരമായ അറിവ് ക്രൈറ്റീരിയ സ്പെസിഫിക്കേഷൻസ് പ്രായോഗിക പരിമിതികൾ എന്നിവയിൽ നിങ്ങൾ CO5 CO6 CO7 നോക്കുകയാണെങ്കിൽ അവ കോൺസെപ്ച്യുവൽ അപ്ലൈ അപ്ലൈ പ്രോസിഡറൽ അപ്ലൈ ക്രൈറ്റീരിയ സ്പെസിഫിക്കേഷൻസ് എന്ന് യഥാ ക്രമത്തിൽ കാണാനാകും ടാക്സോണമി പട്ടിക നോക്കുന്നതിലൂടെ നിങ്ങൾക്ക് അഭിസംബോധന ചെയ്യാൻ താൽപ്പര്യപ്പെടുന്ന ഏതെങ്കിലും പ്രത്യേക സെൽ ഉണ്ടെന്നും നിങ്ങൾ അതിൽ കണ്ടെത്തിയില്ലെങ്കിൽ അത് കോഴ്സ് ഡിസൈനർക്ക് ഒരു ഫീഡ്ബാക്ക് ആകുന്നു നിങ്ങളുടെ കോഴ്സ് ഔട്കം മാറ്റി എഴുതാനോ അവലോകനം നടത്താനോ ഇത് ആവശ്യമായി വന്നേക്കാം ഇത് ആവർത്തന പ്രക്രിയയാണ് ടാക്സോണമി പട്ടികയിൽ CO കൾ കണ്ടെത്തുക എന്നതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലൊന്ന് നമ്മൾ വിലയിരുത്തലുകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്ട്രക്ഷനുകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ അത് അനുബന്ധ സെല്ലിൽ സ്ഥിതിചെയ്യേണ്ടതുണ്ട് ടാക്സോണമി പട്ടിക വിവിധ പ്രവർത്തനങ്ങൾ തമ്മിലുള്ള വിന്യാസം നോക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ പ്രസക്തമായ എല്ലാ വിജ്ഞാന വിഭാഗങ്ങളെയും അഭിസംബോധന ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുകൂടി ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ മെറ്റാകോഗ്നിറ്റീവ് ഭാഗത്തെ അഭിസംബോധന ചെയ്യുന്നില്ല മെറ്റാകോഗ്നിറ്റീവ് വിജ്ഞാന വിഭാഗങ്ങൾ അപ്രധാനമാണെന്ന് ഇതിനർത്ഥമില്ല ആ പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായ അറിവും ഉപകരണങ്ങളും ലഭ്യമായേക്കാം അല്ലെങ്കിൽ ഇല്ലായിരിക്കാം പക്ഷേ നിങ്ങൾ എടുക്കുന്ന ഏത് തീരുമാനവും എന്തുകൊണ്ടാണ് "മെറ്റാകോഗ്നിറ്റീവ് അറിവിന്റെ" നിരയെ അഭിസംബോധന ചെയ്യാൻ നിങ്ങൾ നിർദ്ദേശിക്കാത്തത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം പ്രോഗ്രാം ഔട്കമുകളും പ്രോഗ്രാം സ്പെസിഫിക് ഔട്കമുകളും ഒരു പ്രോഗ്രാമിന്റെ സവിശേഷതയാണ് ഈ പിഒകളും പിഎസ്ഒകളും പ്രധാനമായും കോർ കോഴ്സുകളിലൂടെ അഭിസംബോധന ചെയ്യുകയോ നേടുകയോ ചെയ്യുന്നു കോർ കോഴ്സുകൾക്ക് പുറമെ പ്രോജക്റ്റുകളും ചില കോ കരിക്കുലർ പാഠ്യേതര പ്രവർത്തനങ്ങളും ഉണ്ടാകാം ഔപചാരിക കോർ കോഴ്സുകളിലൂടെ ആകണം പ്രധാനമായും പിഒകളും പിഎസ്ഒകളും നേടേണ്ടത് പിഒകളും പിഎസ്ഒകളും എത്രത്തോളം കൈവരിക്കുന്നുവെന്ന് നമുക്ക് കണക്കാക്കേണ്ടതുണ്ട് രണ്ട് പ്രശ്നങ്ങളുണ്ട് പിഒകളും പിഎസ്ഒകളും ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ സിഒകളെ ടാഗുചെയ്യുന്നു എന്നാൽ ഒരു പിഒ ടാഗുചെയ്യുകയും ക്ലാസ് മുറിയിൽ സംക്ഷിപ്തമായി പരാമർശിക്കുകയും ചെയ്താൽ അത് വേണ്ടവിധം പരിഗണിക്കപ്പെടുമെന്ന് നാം കരുതുന്നുണ്ടോ ഒരു പിഒയെ ഒരു സിഒയിലേക്ക് എത്രമാത്രം ശക്തമായി മാപ്പുചെയ്യണമെന്നു നമ്മൾ കണ്ടു ഇത് മൊഡ്യൂൾ 1 ൽ നമ്മൾ വിശദമായി പരിഗണിച്ചിട്ടുണ്ട് പിഒ അല്ലെങ്കിൽ പിഎസ്ഒ നേടുന്നത് അനുബന്ധ സിഒകളുടെ നേട്ട നിലയെയും അത് എത്രത്തോളം ശക്തമായി മാപ്പുചെയ്തു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഓരോ കോഴ്സ് ഔട്കവും പിഒകളുടെയും പിഎസ്ഒകളുടെയും ഒരു ഉപസെറ്റിനെ വ്യത്യസ്ത തലങ്ങളിലേക്ക് അഭിസംബോധന ചെയ്യുന്നു ഏതൊരു കോഴ്സും പിഒകളുടെയും പിഎസ്ഒകളുടെയും ഒരു ഉപസെറ്റിനെ മാത്രമേ അഭിസംബോധന ചെയ്യുകയുള്ളൂ ഒപ്പം അതിന്റെ ശക്തി 1 2 അല്ലെങ്കിൽ 3 ആയി ഇടുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതായി മിതമായി ഗണ്യമായി എന്നും പറയാൻ കഴിയും നിങ്ങൾ ഉപയോഗിക്കാൻ താൽപ്പര്യപ്പെടുന്ന പദങ്ങൾ എന്തുതന്നെയായാലും മൂന്ന് ലെവലുകൾ തിരിച്ചറിയുക ഒരാൾക്ക് കൂടുതൽ ലെവലുകൾ ഉപയോഗിക്കാൻ കഴിയും പക്ഷേ പിന്നീട് നിരവധി ലെവലുകൾ ട്രാക്കുചെയ്യുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായിത്തീരുന്നു കോഴ്സ് വിവരണത്തിൽ നിന്ന് സിഒകളിലൂടെ ഒരു പിഒയെ അഭിസംബോധന ചെയ്യാനുള്ള കരുത്തും പിഒകൾ പിഎസ്ഒകളുടെ കോഗ്നിറ്റീവ് ലെവലുകൾ വിജ്ഞാന വിഭാഗങ്ങൾ സെഷനുകളുടെ എണ്ണം എന്നിവയുമായുള്ള ടാഗുചെയ്യൽ എന്നിവ തീരുമാനിക്കുന്നതിനുള്ള ലളിതവും എന്നാൽ ന്യായീകരിക്കാവുന്നതുമായ ഒരു മാർഗം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് മാപ്പിംഗിന്റെ കരുത്ത് 3 തലങ്ങളിൽ നിർവചിച്ചിരിക്കുന്നു കുറഞ്ഞത് 1 ഇടത്തരം 2 ശക്തമായത് 3 അല്ലെങ്കിൽ എനിക്ക് അതിനെ ചെറുതായി മിതമായി ഗണ്യമായി എന്ന് വിളിക്കാം CO PO PSO മാപ്പിംഗിന്റെ ശക്തി നിർണ്ണയിക്കാൻ ഞങ്ങൾ മൊഡ്യൂൾ 1ൽ രീതി നൽകിയിരുന്നു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഈ നടപടിക്രമത്തിൽ സംതൃപ്തിയില്ലെങ്കിൽ അവർക്ക് നടപടിക്രമം പുനർനിർവചിക്കാൻ കഴിയും 40 ക്ലാസ് റൂം സെഷനുകളോ ലാബ് സമയങ്ങളോ ഒരു പിഒയെ അഭിസംബോധന ചെയ്യുന്നുവെങ്കിൽ പിഒയെ ലെവൽ 3 ൽ അഭിസംബോധന ചെയ്യുന്നുവെന്ന് കണക്കാക്കപ്പെടുന്നു ഈ പറയുന്നതുമായി ഞാൻ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഉദാഹരണത്തിന് 60 ത്തിൽ കൂടുതലല്ലാതെ ഞാൻ അതിനെ ലെവൽ 3 ആയി പരിഗണിക്കുന്നില്ല അതെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫാക്കൽറ്റികൾ ഒരുമിച്ചിരുന്ന് ഈ ശതമാനം തീരുമാനിക്കണം നിങ്ങൾക്ക് ഈ രീതി പിന്തുടരാൻ താൽപ്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും രീതി പിന്തുടരാം പക്ഷേ ഇത് ന്യായീകരിക്കാവുന്നതും എല്ലാ കോഴ്സുകൾക്കും ഉപയോഗിക്കാൻ കഴിയുന്നതും ആകണം ഇവിടെ നമ്മൾ നിർവചിക്കുന്ന മാപ്പിംഗിന്റെ കരുത്ത് നമ്മൾ എടുക്കുന്ന ക്ലാസ് റൂം സെഷനുകളുടെ എണ്ണത്തിലാണ് ഒരു പ്രത്യേക പിഒയെ അഭിസംബോധന ചെയ്യുന്നതിന് ക്ലാസ് റൂം സെഷനുകൾ 5 ശതമാനത്തിൽ താഴെയാണെങ്കിൽ നമ്മൾ 0 ഉപയോഗിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് 0 1 2 3 ലെവലുകൾ നിർവചിച്ചിക്കപ്പെട്ടിരിക്കുന്നു മാപ്പിംഗ് ശക്തി ഇതുപോലെ ചെയ്യുന്നു 12 പിഒകളുണ്ട് കൂടാതെ 4 പിഎസ്ഒകളും ആകാം 2 മുതൽ 4 പിഎസ്ഒകളാണ് നമ്മൾ ഒരു സാങ്കൽപ്പിക കോഴ്സ് എടുക്കുന്നു ഓരോ സിഒയ്ക്കും എടുത്ത ക്ലാസ് റൂം സെഷനുകളും നമ്മൾ ഉപയോഗിച്ച ടാഗിംഗും അടിസ്ഥാനമാക്കി നമ്മൾ ഈ അക്കങ്ങളിൽ എത്തി അതായത് PO1 ന്റെ ശക്തി 1 ലേക്കും PO2ന്റെ 1 ലേക്കും PO3ന്റെ 3 ലേക്കും PO5ന്റെ 2 ലേക്കും PO10ന്റെ 1 ലേക്കും PSO1ന്റെ 3 ലേക്കും അഭിസംബോധന ചെയ്യപ്പെടുന്നു ഇതിൽ നിങ്ങൾക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഈ അക്കങ്ങൾ പരിഷ്ക്കരിക്കുന്നതിനായി നിങ്ങൾക് കോഴ്സ് ഔട്കമിൽ മാറ്റം വരുത്താം ഈ കോഴ്സ് PO4 PO6 PO7 PO8 PO9 PO11 PO12 എന്നിവയെ അഭിസംബോധന ചെയ്യുന്നില്ലെന്നും PSO2 3 4 എന്നിവയെയും അഭിസംബോധന ചെയ്യുന്നില്ലെന്നും വളരെ വ്യക്തമാണ് സാധാരണയായി ഒരു കോഴ്സ് കാണുന്ന രീതി ഇതാണ് അതിനർത്ഥം നിങ്ങൾക്ക് 2 മുതൽ 5 വരെ പിഒകൾക്ക് വ്യത്യസ്ത ശക്തികളെ അഭിസംബോധന ചെയ്യാനാകും നിങ്ങളുടെ പിഎസ്ഒകൾ ശരിയായി എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു കോഴ്സ് ഒരു പിഎസ്ഒയെ മാത്രമേ അഭിസംബോധന ചെയ്യുകയുള്ളൂ നിങ്ങൾ എങ്ങനെ എഴുതുന്നു എന്നതിനെ ആശ്രയിച്ച് ഇത് ചില അധിക പിഎസ്ഒകളെ അഭിസംബോധന ചെയ്തേക്കാം കോഴ്സ് രൂപകൽപ്പനയുടെ പിന്നീടുള്ള ഘട്ടങ്ങളായ ഡെവലപ്മെന്റ് ഇമ്പ്ലിമെൻറ് ഇവാല്യുവേറ്റ് എന്നിവയിലേക്ക് ഈ വിവരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ ഒരാൾ ചെയ്യേണ്ട നടപടികളിൽ ഒന്നാണിത് അനലൈസ് ഘട്ടത്തിലെ മറ്റൊരു പ്രക്രിയ നോക്കാം ഉദാഹരണ കോഴ്സിന്റെ CO5 പരിഗണിക്കുക ആംപ്ലിഫിക്കേഷൻ സമ്മിംഗ് ഡിഫറൻസേഷൻ ഇന്റഗ്രേഷൻ amplification summing differentiation and integration എന്നിവയുൾപ്പെടെ അനലോഗ് ലീനിയർ സിഗ്നൽ പ്രോസസ്സിംഗ് ഫംഗ്ഷനുകൾ ചെയ്യുന്നതും ലോഗ് ആന്റിലോഗ് ആംപ്ലിഫിക്കേഷൻ കറന്റ് സെൻസിംഗ് റെക്റ്റിഫിക്കേഷൻ ഡിസി വോൾട്ടേജ് റെഗുലേഷൻ log and antilog amplification current sensing rectification and DC voltage regulation എന്നിവയുൾപ്പെടെയുള്ള നോൺ ലീനിയർ സിഗ്നൽ പ്രോസസ്സിംഗ് ഫംഗ്ഷനുകൾ ചെയ്യുന്നതുമായ ഡിസൈൻ സർക്യൂട്ടുകൾ ഇത് കുറച്ച് വിശദമായി എഴുതിയ CO ആണ് കാരണം ഒരാൾക്ക് ചില ഇനങ്ങൾ ചേർക്കാനോ ഇല്ലാതാക്കാനോ കഴിയും ഉദാഹരണത്തിന് ലോഗും ആന്റിലോഗ് ആംപ്ലിഫിക്കേഷനും നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഒരു അധ്യാപകൻ തീരുമാനിച്ചേക്കാം സമയക്കുറവ് കാരണം അല്ലെങ്കിൽ കോഴ്സിന്റെ ഈ നിലയിൽ ഞാൻ അത് അഭിസംബോധന ചെയ്യേണ്ടതില്ലെന്ന് ഞാൻ കരുതുന്നു ഞങ്ങൾക്ക് ഏകദേശം 11 ക്ലാസ് റൂം സെഷനുകൾ ആവശ്യമാണെന്ന് കണ്ടെത്തി വിജ്ഞാനവുമായി ഇടപഴകാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് ഞാൻ മെറ്റീരിയൽ വിഭജിക്കുകയും വിദ്യാർത്ഥികളെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യേണ്ടതുമാണ് ഒരു യൂണിറ്റായി 11 സെഷനുകൾ ആസൂത്രണം ചെയ്യുന്നത് കഠിനമായിരിക്കും CO5 ന്റെ പ്രസ്താവനയിൽ നിന്ന് നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ എനിക്ക് ഇത് അല്പം താഴ്ന്ന തലത്തിലുള്ള ഒന്നിലധികം ഔട്കമുകളാക്കി മാറ്റാം എനിക്ക് അതിന് ഒരു പേര് നൽകേണ്ടതുണ്ട് ഞങ്ങൾ അതിനെ ഒഫിഷ്യൽ കോംപറ്റൻസികൾ എന്ന് വിളിക്കുന്നു കർശനമായി പറഞ്ഞാൽ ഔട്കവും കോംപറ്റൻസിയും ഒരുപോലെയാണ് പക്ഷേ നമ്മുടെ സൌകര്യത്തിനായി നമ്മൾ CO5 C1 കോംപറ്റൻസി 1 CO5 കോംപറ്റൻസി 2 എന്ന് പറയുന്നു നമ്മൾ CO5 നെ നാല് വ്യത്യസ്ത കോംപറ്റൻസികളായി വിശദീകരിക്കുന്നു CO5 ന്റെ ആദ്യ യൂണിറ്റ് ഇതായി മാറുന്നു ഡിസൈൻ ആംപ്ലിഫയറുകൾ VCVS CCVS VCCS CCCS അനുയോജ്യമായ ഒപി ആമ്പുകളിൽ നിന്ന് ആരംഭിച്ച് അത്യാധുനിക വാണിജ്യപരമായി ലഭ്യമായ ഘടകങ്ങൾ ഉപയോഗിക്കുന്നു ഈ പ്രവർത്തനം നടത്തുന്നതിനോ ഈ പ്രവർത്തനം പഠിപ്പിക്കുന്നതിനോ നാല് ക്ലാസ് റൂം സെഷനുകൾ ആവശ്യമാണ് ഇൻസ്ട്രക്ഷന്റെ ഭാഗമായി വരുന്ന വിദ്യാർത്ഥികളുടെ ഇടപെടലും ഇതിൽ ഉൾപ്പെടും ഇതുപോലുള്ള ചെറിയ യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് കൂടുതൽ സൌകര്യപ്രദമാണ് ആദ്യ കോംപറ്റൻസിയ്ക് 4 ക്ലാസ് റൂം സെഷനുകൾ രണ്ടാമത്തേതിന് 4 ക്ലാസ് റൂം സെഷനുകൾ മൂന്നാമത്തേതിന് 1 മാത്രം നാലാമത്തേതിന് 2 എന്നിവ ആവശ്യമാണ് ഇത് കോഴ്സ് ഡിസൈനർമാർക്ക് ഒരുതരം ഫീഡ്ബാക്കായി പ്രവർത്തിക്കുന്നു ഈ യോഗ്യതകളിലേക്ക് ഒരു സിഒയെ വിഭജിച്ചതിനുശേഷം ഞാൻ തിരിച്ചുപോയി കോഴ്സ് ഔട്ട്കം പ്രസ്താവന പുനഃപരിശോധന നടത്താൻ ആഗ്രഹിച്ചേക്കാം ഓരോ ഘട്ടത്തിലും നിരവധി ആവർത്തനങ്ങളുണ്ട് അവസാനമായി ഇതിനുള്ള ശരിയായ കോഴ്സ് ഫലങ്ങളുമായി നമ്മൾ വരുന്നു അതിനാൽ അനലൈസ് ഘട്ടത്തിന്റെ പ്രധാന ഔട്ട്പുട്ട് എന്താണ് ഔപചാരിക എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളെ സംബന്ധിച്ചിടത്തോളം പ്രാഥമിക ഔട്ട്പുട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് കോഴ്സ് ഔട്ട്കം പ്രസ്താവനകളുടെ കൂട്ടവും ഈ കോഴ്സ് ഔട്ട്കം പ്രസ്താവനകളെ കോംപറ്റൻസികളിലേക്ക് വിശദീകരിക്കുന്നതുമാണ് അനലൈസ് ഘട്ടത്തിന്റെ ഔട്ട്പുട്ട് സമാനരായ ഒരു സംഘം ആളുകൾ അവലോകനം ചെയ്യും പുറത്തുനിന്നുള്ള ആരെങ്കിലും അത് നോക്കുമ്പോൾ കാണാതായ ചില കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചേക്കാം അല്ലെങ്കിൽ അവർ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചേക്കാം അത് വളരെ വിലപ്പെട്ട ഇൻപുട്ടുകൾ ആയിരിക്കും നിങ്ങൾ CO കളിൽ ചെയ്യാൻ താൽപ്പര്യപ്പെടുന്ന ഏത് മാറ്റത്തിനും പിയർ ഇൻപുട്ടുകൾ പരിഗണിക്കാം ആത് അനലൈസ് ഫേസ് ഔട്പുട്ടുകളുടെ ഫോർമേറ്റീവ് ഇവാല്യവേഷൻ ആകുന്നു വ്യായാമം നിങ്ങളുടെ കോഴ്സ് രൂപകൽപ്പന ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ADDIE യുടെ അനലൈസ് ഘട്ടത്തിൽ ഉൾപ്പെടുത്തണമെന്ന് നിങ്ങൾ കരുതുന്ന വ്യത്യസ്ത ഉപപ്രക്രിയകൾ വിവരിക്കുക കാരണം അനലൈസ് ഘട്ടത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് 7 ഉപപ്രക്രിയകൾ നൽകി നിങ്ങളുടെ വീക്ഷണത്തിൽ എന്ത് ഉപപ്രക്രിയകൾ പരിഷ്കരിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് കോഴ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണയെ അടിസ്ഥാനമാക്കി സെറ്റ് ചെറുതോ വലുതോ ആക്കാം നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ സ്വന്തം കോഴ്സുകളിൽ നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങളുണ്ട് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നതുപോലെ നിങ്ങളുടെ അധിക പ്രക്രിയകൾ അല്ലെങ്കിൽ ഉപപ്രക്രിയകളുടെ ലളിതവൽക്കരണം നിങ്ങൾക്ക് നിർദ്ദേശിക്കാം കൂടാതെ നിങ്ങൾ പഠിപ്പിച്ചതോ പരിചിതമായതോ ആയ കോഴ്സുമായി ബന്ധപ്പെട്ട് അനലൈസ് ഘട്ടത്തിന്റെ എല്ലാ ഉപ പ്രക്രിയകളും നടത്താൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു നിങ്ങളുടെ ഔട്ട്പുട്ട് ഞങ്ങളുമായി പങ്കിടാൻ കഴിയുമെങ്കിൽ അത് നിങ്ങളുമായി കൂടുതൽ സംവദിക്കാൻ കഴിയുന്ന ഒരു നല്ല ഉറവിടമായി മാറും അടുത്ത യൂണിറ്റ് M2 U6 ൽ ഡിസൈൻ ഘട്ടത്തിന്റെ ഉപപ്രക്രിയകൾ മനസിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെ നന്ദി